ഈ അന്തിമ സെഷനിൽ ആഴ്ച 7 ൽ എടുത്ത അവസാന പ്രഭാഷണങ്ങളെ അടിസ്ഥാനമാക്കി ഞങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നു ഞാൻ ഇതിനെ ഹോം അസൈൻമെന്റ് എന്ന് വിളിക്കാൻ പോകുന്നില്ല കാരണം ഇത് സുബ്മിറ്റ് ചെയ്യേണ്ടതില്ല അതിനാൽ ഇത് ഞാൻ ഈ പ്രശ്ന സെറ്റ് എന്ന് വിളിക്കാൻ പോകുന്നു ഈ സെറ്റിലെ പ്രശ്നങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനായി തിരഞ്ഞെടുത്തു ഞങ്ങൾ വികസിപ്പിച്ചതെല്ലാം യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് അതിനാൽ ആരംഭിക്കുന്നതിന് ഈ പ്രശ്നത്തിൽ തരംഗങ്ങൾക്കായി ഞങ്ങൾ ചില ഫോമുകൾ നൽകിയിരുന്നു അവ സഞ്ചരിക്കുന്നു അതിനാൽ ഈ പ്രശ്നത്തിൽ നൽകിയിരിക്കുന്ന നാല് ഫോമുകൾ ഞങ്ങൾ ചോദിക്കാൻ പോകുന്നു ഇ എക്സ്പോണൻഷ്യൽ എ എന്നത് ഒരു സ്ഥിരമാണ് ചില സ്ഥിരമായ k x മൈനസ് v t സ്ക്വയർ ഒരു ഫോം Aexpkx vt2 മറ്റൊരു ഫോം ഒരു എക്സ്പോണൻഷ്യൽ i k z പ്ലസ് v t A expikzvt മൂന്നാമത്തെ ഫോം നൽകിയിരിക്കുന്നു A സൈൻ പൈ x ഓവർ L ആയി ഒപ്പം e റൈസ് ടു i കുറച്ച് ഒമേഗ ടി Asin πxL eiωt നാലാമത്തെ ഫോം കൊസൈൻ പൈ x ഓവർ എൽ പ്ലസ് ഐ സിൻ പൈ എക്സ് ഓവർ എൽ ഇ റൈസ് ടു I ഒമേഗ ടി A cos πxL isin πxL eiωt നൽകിയിരിക്കുന്ന ഈ നാല് ഫോമുകളിൽ ഏതാണ് സഞ്ചരിക്കുന്ന തരംഗത്തെ പ്രതിനിധീകരിക്കുന്നത് ഏതാണ് അല്ലാത്തത് അതിനാൽ x മൈനസ് വി ടി ഫോമിന്റെ ഏതെങ്കിലും ഫങ്ക്ഷൻ അല്ലെങ്കിൽ എക്സ് പ്ലസ് വി ടി ഫോമിന്റെ ഏതെങ്കിലും ഫങ്ക്ഷൻ ഒരു തരംഗത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് ഞങ്ങൾ ഇതുവരെ പ്രഭാഷണത്തിൽ കണ്ടതാണ് അതിനാൽ x മൈനസ് വി ടി യുടെ ഫങ്ക്ഷൻ ആയ ആദ്യ രൂപം വലതുവശത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു പൾസ് അല്ലെങ്കിൽ തരംഗത്തെ പ്രതിനിധീകരിക്കുന്നു വാസ്തവത്തിൽ ഇത് മികച്ചതാക്കാൻ ഞാൻ ഇവിടെ ഒരു മൈനസ് ചിഹ്നം ഇടണം Aexp kx vt2 അതിനാൽ നിങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് പോകുമ്പോൾ തരംഗo ഇല്ലാതാകും അതുപോലെ രണ്ടാമത്തേതിന് z ഉണ്ട് അത് ദൂരവും പ്ലസ് vt ഉം ആണ് അതിനാൽ ഇതും ഒരു സഞ്ചരിക്കുന്ന തരംഗമാണ് അത് ഇടത്തേക്കോ നെഗറ്റീവ് z ദിശയിലേക്കോ സഞ്ചരിക്കുന്നു മൂന്നാമത്തേത് എക്സ് പ്ലസ് വി ടി മാത്രം അല്ലെങ്കിൽ എക്സ് മൈനസ് വി ടി രൂപത്തിൽ മാത്രം സംയോജിപ്പിക്കാൻ കഴിയില്ല വാസ്തവത്തിൽ നിങ്ങൾ ഇത് വികസിപ്പിക്കുകയാണെങ്കിൽ അത് A ബൈ 2 e റൈസ് ടു i pi x ബൈ L പ്ലസ് ഒമേഗ t മൈനസ് അതിനാൽ 2 i A ഓവർ 2 i e റൈസ് ടു i മൈനസ് pi x ഓവർ L പ്ലസ് ഒമേഗ t A2i ei πxLωt A2i ei πxLωt അതിനാൽ ഇത് രണ്ട് ഫംഗ്ഷനുകളുടെ അല്ലെങ്കിൽ രണ്ട് വഴികളുടെ സംയോജനമാണ് ഒന്ന് വലതുവശത്തേക്കും മറ്റൊന്ന് ഇടതുവശത്തേക്കും സഞ്ചരിക്കുന്നു അതിനാൽ ഇത് ഒരു സഞ്ചരിക്കുന്ന തരംഗമല്ല അതിനാൽ ഞാൻ ഇത് മുറിച്ചുമാറ്റട്ടെ ഇത് ഒരു സഞ്ചരിക്കുന്ന തരംഗമല്ല അവസാനത്തേത് ഇ റൈസ് ടു i പൈ എക്സ് ഓവർ എൽ ടൈംസ് ഇ റൈസ് ടു i ഒമേഗ ടി ഇത് ഇ റൈസ് ടു i പൈ എക്സ് ഓവർ എൽ പ്ലസ് ഒമേഗ ടി eiπxLeiωt ei πxLωt ഇത് വീണ്ടും എഫ് ഫംഗ്ഷൻ x പ്ലസ് വി ടി ആണ് അതിനാൽ ഇത് ഒരു സഞ്ചരിക്കുന്ന തരംഗത്തെ പ്രതിനിധീകരിക്കുന്നു ചോദ്യo നമ്പർ 2 ദൈർഘ്യമേറിയ സ്ട്രിംഗ് അതിൽ ടെൻഷൻ 10 ന്യൂട്ടൺ ആണ് അതിനാൽ ഞങ്ങൾ ഒരു നീണ്ട സ്ട്രിംഗ് പരിഗണിക്കേണ്ടതുണ്ട് അതിൽ ടെൻഷൻ ടി ക്ക് തുല്യമാണ് 10 ന്യൂട്ടൺ ഒരു അറ്റത്ത് അതിനാൽ ഞങ്ങൾ അതിന്റെ ഒരറ്റം പിടിക്കുന്നു ഈ അവസാനം ഒരു സ്ഥാനചലനത്തിലേക്ക് നീങ്ങുന്നു അതിനാൽ സമയത്തിന്റെ ഒരു ഫംഗ്ഷൻ ആയി ഇത് മുകളിലേക്കും താഴേക്കും നീക്കുന്നു y t തുല്യമാണ് പോയിന്റ് o 1 സൈൻ 50 t അതിനാൽ ആവൃത്തി സെക്കൻഡിൽ 50 ആണ് yt0 01 sin50t നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് വ്യക്തമായും ഞാൻ അത് നീക്കുമ്പോൾ തിരമാലകൾ താഴേക്ക് സഞ്ചരിക്കാൻ പോകുന്നു ഈ തരംഗത്തെ എങ്ങനെ പ്രതിനിധീകരിക്കും ഇപ്പോൾ ഓർക്കുക തരംഗം വലതുവശത്തേക്ക് സഞ്ചരിക്കുന്നതിനാൽ ഇത് x t എന്നിവയുടെ ഒരു ഫംഗ്ഷനായിരിക്കും ഞങ്ങൾ ഇത് f at x എന്നതിന് തുല്യമായി 0 ന് x എന്നതിന് തുല്യമായി എഴുതുന്നു സ്ഥാനചലനം എന്തായിരിക്കും ഒരു സമയത്ത് x ഓവർ വി നേരത്തെ ആയിരുന്നു fxtfx0 t xv അതിനാൽ ഞാൻ സമയം x പോയിന്റിൽ സ്ഥാനചലനം നോക്കുകയാണ് ഇത് x എന്ന സ്ഥാനചലനം x ന് തുല്യമായ സമയത്തിന് 0 ന് തുല്യമാണ് സമയം t ന് മൈനസ് x ഓവർ v ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം X 0 ന് തുല്യമാണ് എനിക്ക് സ്ഥാനചലനം അറിയാം അതിനാൽ ഇത് 0 01 സൈൻ 50 ആയിരിക്കും ടി എന്നതിനുപകരം ഞാൻ ടി മൈനസ് എക്സ് ഓവർ വിക്ക് പകരമായി ഉപയോഗിക്കും 0 01sin 50t xv ഒപ്പം v ഒരു സഞ്ചരിക്കുന്ന സ്ട്രിംഗിലെ തരംഗത്തിന്റെ വേഗത സ്ക്വയർ റൂട്ട് ടി ആണ് ഇത് യൂണിറ്റ് നീളത്തിന് മാസ്സ് കൊണ്ട് ഹരിക്കുന്നു ടി 10 ന്യൂട്ടൺസ് ആയിരിക്കുന്നതിനാൽ ഇതിന്റെ യൂണിറ്റ് ദൈർഘ്യത്തിന്റെ മാസ്സ് നൽകാൻ ഞാൻ മറന്നു ഒരു മീറ്ററിന് 0 05 20014 ms അതിനാൽ ഇത് 0 05 ആയിരിക്കും ഇത് സ്ക്വാർ റൂട്ട് 1000 അല്ലെങ്കിൽ 5200 അല്ലെങ്കിൽ സെക്കൻഡിൽ ഏകദേശം 14 മീറ്റർ ആണ് അതിനാൽ തരംഗത്തിന് സഞ്ചരിക്കുന്ന തരംഗത്തിന്റെ എഫ് എക്സ് ടി ന്റെ അന്തിമ ഉത്തരം 0 01 ആയിരിക്കും അവ ഏത് യൂണിറ്റുകളാണെങ്കിലും സൈൻ 50 ടി മൈനസ് എക്സ് ഓവർ 14 അല്ലെങ്കിൽ 0 01 സൈൻ 50 ടി മൈനസ് 3 57 എക്സ് ആയിരിക്കും fxt0 01sin50t x14 0 01sin 50t 3 57x അതാണ് ഉത്തരം ചോദ്യം നമ്പർ 3 മാറുന്ന ഒരു വൈദ്യുത മണ്ഡലം ഒരു കാന്തികക്ഷേത്രത്തിന് കാരണമായില്ലെങ്കിൽ കാന്തിക തരംഗങ്ങൾ നിലനിൽക്കും അതിനാൽ ഞങ്ങൾ ചോദിക്കുന്നത് ബയോ സാവർട്ട് നിയമത്തിൽ നിന്ന് നിങ്ങൾക്കറിയാം B യുടെ കർൾ mu J ചാലകത്തിന് തുല്യമാണെന്ന് മാക്സ്വെൽ എത്തുന്നതിനു മുമ്പായിരുന്നു ഇത് മാക്സ്വെൽ പറഞ്ഞത് ഇല്ല ഇത് പൊതുവായി ശരിയാകാൻ കഴിയില്ല പൊതുവേ എനിക്ക് ഇതിലേക്ക് ഒരു പദം കൂടി ചേർക്കേണ്ടിവന്നു അതിനാൽ ആ തുടർച്ച സമവാക്യം തൃപ്തികരമാണ് × BμJconduction00E∂t കാരണം ഞാൻ ബി യുടെ കർൾ വ്യതിചലനം എടുക്കുകയാണെങ്കിൽ അത് സമാനമായി 0 ആണെങ്കിൽ വലതുവശവും എനിക്ക് 0 നൽകുന്നു ഇത് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്നറിയപ്പെടുന്ന പദമാണ് മാറുന്ന വൈദ്യുത മണ്ഡലം ഒരു കാന്തികക്ഷേത്രത്തിന് കാരണമാകുമെന്നാണ് വ്യാഖ്യാനം നമ്മൾ ചോദിക്കുന്ന ചോദ്യം മാറുന്ന കാന്തികക്ഷേത്രം കാന്തികക്ഷേത്രത്തിന് കാരണമായില്ലെങ്കിൽ അതിനർത്ഥം വൈദ്യുത മണ്ഡലം മാറ്റുകയോ ചെയ്യുന്നത് ഒരു കാന്തികക്ഷേത്രത്തിന് കാരണമായില്ലെങ്കിൽ അതായത് വൈദ്യുതകാന്തിക തരംഗങ്ങൾ ഉണ്ടാകുമെന്നതിനാൽ ഈ പദം നിലവിലില്ല ഉത്തരം ഇല്ല കാരണം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ വൈദ്യുതകാന്തിക തരംഗങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു ഫാരഡെയ്സ് Faradays' നിയമം ഇയുടെ കർൾ മൈനസ് പാർഷ്യൽ ബി യുമായി ബന്ധപ്പെട്ട് ടി കൂടാതെ സ്വതന്ത്ര സ്ഥലത്ത് ഞങ്ങൾ പറയുന്നു ബി യുടെ കർൾ mu 0 എപ്സിലോൺ 0 പാർഷ്യൽ E യുമായി ബന്ധപ്പെട്ട് ടി തുല്യമാണെന്ന് ഞങ്ങൾ ഇവ രണ്ടും കൂട്ടിച്ചേർക്കുന്നു കർൾ E ഇത് നൽകുന്നു മൈനസ് d ബൈ dt കർൾ B ഇത് നൽകുന്നു mu 0 എപ്സിലോൺ 0 d E d t ഇത് രണ്ടാമത്തെ ഡെറിവേറ്റീവ് മൈനസ് mu 0 എപ്സിലോൺ 0 d 2 E dt സ്ക്വയറാണ് E 2E ∂t 00E∂t 002E2t ഈ പദം ഇല്ലായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ സമവാക്യം ഇല്ലെങ്കിൽ അതിനർത്ഥം വൈദ്യുത മണ്ഡലം വൈദ്യുത മണ്ഡലം മാറ്റുന്നത് ഒരു കാന്തികക്ഷേത്രത്തിന് കാരണമായില്ലെങ്കിൽ ഈ പദം ഉണ്ടാകില്ല അതിനാൽ എനിക്ക് ഒരു തരംഗ സമവാക്യം ലഭിക്കില്ല എനിക്ക് പ്രചാരണ തരംഗ പരിഹാരം ലഭിക്കില്ല ബഹിരാകാശ പ്രചാരണത്തിൽ ഇ ബി എന്നിവ എങ്ങനെ പരസ്പരം നിലനിർത്തുന്നുവെന്ന് ഞാൻ ഗുണപരമായി വിവരിച്ച പ്രഭാഷണത്തിൽ നിന്ന് ഓർക്കുക കൃത്യമായി ഈ പദം ബി ക്ക് കാരണമാവുകയും ബി മാറ്റുകയും പിന്നീട് ഇയ്ക്ക് കാരണമാവുകയും പരസ്പരം നിലനിർത്തുകയും ചെയ്തു അതിനാൽ ഈ പദം ഇല്ലെങ്കിൽ വൈദ്യുതകാന്തിക തരംഗങ്ങൾ ഉണ്ടാകില്ല അതിനാൽ സ്ഥാനചലനം കൂടാതെ വൈദ്യുതകാന്തിക തരംഗങ്ങളില്ല ചോദ്യo നമ്പർ 4 ഭൂമിയിൽ പതിക്കുന്ന സൌരോർജ്ജത്തിന് അങ്ങനെ ഭൂമിയിൽ പതിക്കുന്ന സൌരോർജ്ജം എടുക്കുകയാണെങ്കിൽ അതിന് ഒരു മൂല്യം ഉണ്ട് അത് സൌര സ്ഥിരാങ്കം എന്നറിയപ്പെടുന്നു ഇത് സാധാരണ വീഴുന്ന ഊർജ്ജത്തിൽ നിർവചിക്കപ്പെടുന്നു അതായത് ആ സമയത്ത് ഭൂമിയുടെ ഉപരിതലത്തിന് ലംബമായി ഒരു കോണിൽ ഒരു യൂണിറ്റ് സമയത്തിന് ഒരു യൂണിറ്റ് വിസ്തീർണ്ണത്തിന് ഇത് ഒരു മീറ്റർ സ്ക്വാർ ന് ഏകദേശം 1350 വാട്ട്സ് ആണ് അതിനാൽ ഈ ചോദ്യം ചോദിക്കുന്നത് ഭൂമിയുടെ ഒരു യൂണിറ്റ് വിസ്തീർണ്ണത്തിൽ ഒരു യൂണിറ്റ് സമയത്തിന് സൌരോർജ്ജം വീഴുന്നത് സാധാരണ സംഭവത്തിൽ ഒരു മീറ്റർ സ്ക്വയറിന് 1350 വാട്ട്സ് ആണ് Solar energy energy time area1350 Wm2 സൌരവികിരണത്തിനുള്ള വൈദ്യുത മണ്ഡലത്തിന്റെ അനുബന്ധ മൂല്യം എന്താണ് 60 വാട്ട് ബൾബിനായി പ്രഭാഷണങ്ങളിൽ സമാനമായ ഒരു പ്രശ്നം ഞാൻ പരിഹരിച്ചിരുന്നു ഇപ്പോൾ ഞങ്ങൾ സൌരവികിരണം ആവശ്യപ്പെടുന്നു അതിനാൽ എനിക്കറിയാം ഒരു യൂണിറ്റ് ഏരിയയിലെ ഊർജ്ജം ഒരു യൂണിറ്റ് സമയത്തിന് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പ്രദേശത്തിന് ഊർജ്ജം പോയിന്റിംഗ് വെക്റ്ററാണ് ഇത് മാഗ്നിറ്റ്യൂഡ് 1 പകുതി എപ്സിലോൺ 0 E 0 ന് തുല്യമാണ് അതാണ് വൈദ്യുത മണ്ഡലത്തിന്റെ വ്യാപ്തി സ്ക്വാർ തവണ സി ഇത് ഒരു മീറ്റർ സ്ക്വയറിന് 1350 വാട്ട് ആയി നൽകപ്പെടും അതിനാൽ E 0 2 തവണ 1350 സി കൊണ്ട് ഹരിക്കുന്നതിനു തുല്യമായിരിക്കും എപ്സിലോൺ 0 സ്ക്വയർ റൂട്ട് വോൾട്ട് മീറ്ററിന് എനിക്ക് കണക്കുകൂട്ടൽ എളുപ്പമാക്കാൻ കഴിയും കാരണം 1 ഓവർ 4 പൈ എപ്സിലോൺ 0 9 മടങ്ങ് 10 റൈസ് ടു 9 എനിക്കറിയാം ഇത് 2 തവണ 1350 തവണ 4 പൈ തവണ 9 തവണ 10 റൈസ് ടു 9 സി കൊണ്ട് ഹരിക്കുന്നതിനു തുല്യമായിരിക്കും ഇത് 3 മടങ്ങ് 10 റൈസ് ടു 8 ഇത് ഏകദേശം 10 റൈസ് ടു 3 വോൾട്ടായി അതാണ് ഉത്തരം 0×4π Vm 2×1350×4π×9×1093×108 ≅103 Vm അടുത്ത ചോദ്യo നമ്പർ 5 മീറ്റർ സ്ക്വയറിന് 1350 വാട്ട് തീവ്രതയുള്ള സൌരവികിരണത്തിലേക്ക് ഞങ്ങൾ വീണ്ടും വരുന്നു ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഈ വികിരണം സാധാരണ ഒരു കണ്ണാടിയിൽ പതിക്കുകയും പ്രതിഫലിക്കുകയും കണ്ണാടി വലുപ്പം കരുതുകയും ചെയ്താൽ ഇത് ഒരു വലിയ കണ്ണാടിയാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ 0 3 മീറ്റർ അതായത് ഏകദേശം ¼ തവണ 1 മീറ്റർ ൽ അതിനാൽ നിങ്ങൾ ചുമരിൽ ഇട്ട കണ്ണാടി പോലെയാണ് ഇത് അത് അതിൽ വീഴുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്താൽ കണ്ണാടി അനുഭവിക്കുന്ന ഫോഴ്സ് എന്താണ് വൈദ്യുതകാന്തിക വികിരണം ആക്കം കൂട്ടുന്നുവെന്നും അത് ഒരു ഉപരിതലത്തിൽ എത്തുമ്പോഴെല്ലാം ആ മൊമെന്റം കൈമാറ്റം ചെയ്യപ്പെടുമെന്നും അത് ഒരു ഫോഴ്സ് പ്രയോഗിക്കുമെന്നും അല്ലെങ്കിൽ ഒരു മർദ്ദം വികസിപ്പിക്കുന്നു അതിനാൽ ഫോഴ്സ് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് അത് മർദ്ദത്തിന്റെ ഇരട്ടി പ്രദേശത്തിന് തുല്യമായിരിക്കും എന്താണ് മർദ്ദം ഒരു യൂണിറ്റ് ഏരിയയ്ക്ക് ഒരു യൂണിറ്റ് സമയത്തിന് അല്ലെങ്കിൽ മൊമെന്റം ഫ്ലോയ്ക്ക് മൊമെന്റം ട്രാൻസ്ഫർ ആണ് സമ്മർദ്ദം momentumarea×time ഇപ്പോൾ മൊമെന്റം ഫ്ലോ തുല്യമാകാൻ പോകുന്നു അതിനാൽ നമുക്ക് ഇത് മറ്റൊരു നിറത്തിൽ എഴുതാം മൊമന്റം ഫ്ലോ സി ആകാൻ പോകുന്നു പ്രകാശത്തിന്റെ വേഗത അത് ആവേഗത്തിന്റെ സാന്ദ്രതയേക്കാൾ ഇരട്ടിയാണ് അത് മറ്റൊന്നുമല്ല എസ് ന്റെ സി ടൈംസ് മോഡുലസ് അല്ലാതെ മറ്റൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത് സി സ്ക്വയറിനേക്കാളും അല്ലെങ്കിൽ മോഡിനെ എസ് സി യെക്കാളും വിഭജിച്ചിരിക്കുന്നു അതൊരു മൊമന്റം കൂട്ടുന്നു momentum densityc Sc2 Sc അതിനാൽ ഇത് സമ്മർദ്ദമാകാൻ പോകുന്നു വികിരണം ആഗിരണം ചെയ്യപ്പെടുകയാണെങ്കിൽ അത് പ്രതിഫലിക്കുകയാണെങ്കിൽ മൊമന്റം മാറ്റം ഇരട്ടിയിലധികം വരും അതിനാൽ അത് ആഗിരണം ചെയ്യപ്പെട്ടാൽ ഫോഴ്സ് വിസ്തീർണ്ണമായിരിക്കും അത് 0 3 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്റർ ചതുരശ്ര തവണ സി ആണ് ഇത് പോയിന്റ് 3 തവണയാണ് ഞങ്ങൾ ഇതിനകം കണക്കാക്കിയ എസ് ഇതിനകം 1350 3 തവണ 10 റൈസ് ടു 8 കൊണ്ട് വിഭജിച്ചിരിക്കുന്നു അതിനാൽ ഇത് 0 1 ആണ് ഇത് 135 തവണ 10 റൈസ് ടു മൈനസ് 8 അല്ലെങ്കിൽ 1 35 മടങ്ങ് 10 റൈസ് ടു മൈനസ് 8 മൈനസ് 6 ന്യൂട്ടൺ ആണ് വികിരണം ആഗിരണം ചെയ്യപ്പെട്ടാൽ എനിക്ക് ഒരു ബ്ലാക്ക് ഷീറ്റ് ഉണ്ടായിരുന്നുവെന്ന് കരുതുക പക്ഷേ അത് പ്രതിഫലിക്കുകയാണ് 35×10 6 N അതിനാൽ പ്രതിഫലനം എന്നതിനർത്ഥം ഒരു മൊമന്റം വരുന്നു മൊമന്റം പുറത്തേക്ക് പോകുന്നു അതിനാൽ അകത്തും പുറത്തും ഞാൻ മറ്റൊന്നിൽ നിന്ന് കുറച്ചാൽ എനിക്ക് ഇരട്ടി മൂല്യം ലഭിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ ബലപ്രയോഗം ഈ സംഖ്യയുടെ 2 ഇരട്ടിയാകും ഇത് മൈനസ് 2 70 മടങ്ങ് 10 റൈസ് ടു 6 ന്യൂട്ടൻ ആണ് 70×10 6 N ഞാൻ ഇതിനകം പ്രഭാഷണങ്ങളിൽ പറഞ്ഞതുപോലെ വികിരണത്തിന്റെ ശക്തി വളരെ ചെറുതാണ് വികിരണ സമ്മർദ്ദം വളരെ ചെറുതാണ് കാരണം ഇത് വളരെ ചെറിയ സംഖ്യയാണെന്ന് നിങ്ങൾ കാണുന്നു 0 3 മീറ്റർ സ്ക്വയർ വിസ്തീർണ്ണമുള്ള വലിയ കണ്ണാടിയിൽ പോലും അടുത്തതായി ഒരു അതിർത്തിയിലെ തരംഗ പ്രതിഫലനത്തിലാണ് രണ്ട് പ്രശ്നങ്ങൾ അതിനാൽ ഞാനും ചെയ്തു ഇതാണ് പ്രശ്നo നമ്പർ 6 ഒരു സ്ട്രിംഗിലെ തരംഗത്തിന്റെ പ്രതിഫലനം അതിനാൽ രണ്ട് സ്ട്രിംഗുകൾ ഉണ്ടെന്ന് കരുതുക മറ്റ് സ്ട്രിംഗ് മറ്റൊരു നിറത്തിൽ നിർമ്മിക്കാൻ അനുവദിക്കുക രണ്ട് സ്ട്രിംഗുകളുണ്ടെന്ന് കരുതുക അങ്ങനെ ഒരു അതിർത്തി ഉണ്ട് അതിർത്തിയിൽ ഏത് തരംഗവും വരുന്നു ഒരു പൾസ് വരുന്നുണ്ടെന്ന് കരുതുക അത് ട്രാൻസ്മിറ് ചെയ്യപ്പെടുകയും അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നു അനുപാത വേഗത എന്താണെന്നതിനെ ആശ്രയിച്ച് ഒരേ ഘട്ടത്തിലോ വിപരീത ഘട്ടത്തിലോ ഇത് പ്രതിഫലിക്കും അതിനാൽ ചോദ്യം ഒരു ചതുര പൾസ് ഉണ്ടെന്ന് കരുതുക ഞങ്ങൾ ആദർശവൽക്കരണം നടത്തുകയാണ് അവിടെ പൾസ് പെട്ടെന്ന് ഉയർന്ന് സ്ഥിരമായി മാറുകയും താഴേക്ക് പോകുകയും ചെയ്യുന്നു അനുയോജ്യമല്ലാത്ത ലോകത്ത് പൾസ് പതുക്കെ ഉയരുക പോകുക അവിടെ നിൽക്കുക താഴേക്ക് വരിക എന്നിവ പോലെയാണ് പക്ഷേ ഞങ്ങൾ അതിനെ ആദർശവൽക്കരിക്കുകയാണ് ഈ ആദർശവൽക്കരണം ഒരു സ്ട്രിംഗും അതിൽ മറ്റൊരു സ്ട്രിംഗും ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് കരുതുക ഒരു പൾസ് വരുന്നു അനുയോജ്യമായ പൾസ് സ്ക്വയർ പൾസ് ഇതിന് 1 സെന്റീമീറ്റർ വീതിയും 5 മില്ലിമീറ്റർ ഉയരവുമുണ്ട് ഇത് വരുന്നു അതിർത്തിയിലെത്തുമ്പോൾ അത് പ്രതിഫലിക്കുകയും പ്രക്ഷേപണം ചെയ്യുകയും ചെയ്യുന്നു പ്രതിഫലനം വരുന്നു കാരണം വേഗതകൾ പൊരുത്തപ്പെടുന്നില്ല നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ട്രാൻസ്മിറ്റഡ് ചെയ്യപ്പെടുന്ന പൾസിന്റെ ആകൃതിയും പ്രതിഫലിച്ച പൾസും എന്തായിരിക്കും എന്നതാണ് വേഗത നീല സ്ട്രിംഗിനായിരിക്കും അത് 15 മീറ്ററും ചുവന്ന സ്ട്രിംഗിന് സെക്കൻഡിൽ 10 മീറ്ററുമാണ് അതിനാൽ ആദ്യം കണക്കാക്കാൻ വളരെ എളുപ്പമാണ് ആംപ്ലിറ്റ്യൂഡ് ട്രാൻസ്മിറ്റ് ആംപ്ലിറ്റ്യൂഡ് മറ്റൊന്നുമല്ല 2 v 2 നെ v 1 പ്ലസ് v 2 y ഇൻസിഡന്റ് കൊണ്ട് ഹരിക്കുന്നു ഇത് ഞങ്ങൾ ഇതിനകം പ്രഭാഷണത്തിൽ കണക്കാക്കിയിരുന്നു അതിനാൽ ഇത് 20 25 മടങ്ങ് 5 മില്ലീമീറ്ററായി വിഭജിക്കുകയും അത് 4 മില്ലീമീറ്ററായി പുറത്തുവരുകയും ചെയ്യും yt 2v2v1v2yIncident2025×5 mm4 mm അതിനാൽ ട്രാൻസ്മിറ് ചെയ്യപ്പെടുന്ന പൾസിന് അൽപ്പം കുറവ് വ്യാപ്തിയുണ്ടാകും ഒപ്പം y യെ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു y പ്രതിഫലിക്കുന്നത് മറ്റൊന്നുമല്ല v 2 മൈനസ് v 1 ഓവർ വി 2 പ്ലസ് വി 1 വൈ ഇൻസിഡന്റ് ഇത് മൈനസ് 5 ഓവർ 25 മടങ്ങ് 5 മില്ലിമീറ്ററാകും ഇത് മൈനസ് 4 മില്ലീമീറ്ററാണ് അതിനാൽ ഇത് നിങ്ങളോട് പറയുന്നത് തരംഗം പ്രതിഫലിക്കുമ്പോൾ അത് ഫേസ് മാറ്റങ്ങൾ മറ്റൊരു വഴിയിലേക്ക് നയിക്കും എന്നതാണ് yreflected v2 v1v2v1 yIncident 525×5 mm 1 mm എങ്ങനെയാണ് മൊത്തത്തിലുള്ള ആകൃതി അതിനാൽ ഇവിടെ പൾസ് വരുന്നു അത് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു കുറച്ച് സമയത്തിന് ശേഷം അത് പകരുന്നു ഇപ്പോൾ ഈ പൾസ് ഇവിടെ വരുന്നതായി സങ്കൽപ്പിക്കുക ഏത് വ്യാപ്തിയും വരുന്നത് പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇത് പ്രക്ഷേപണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നിരുന്നാലും ചുവന്ന ഭാഗത്ത് വരുന്നതെന്തും അത് കുറച്ച് മന്ദഗതിയിലാകും അതിനാൽ ഈ പിൻഭാഗം ഇവിടെ വരുമ്പോൾ അതായത് അത് ഒരു സെന്റിമീറ്റർ സഞ്ചരിച്ചു ഇവിടെ മറ്റ് സ്ട്രിംഗിലെ പൾസ് മന്ദഗതിയിൽ നീങ്ങുന്നതിനാൽ ഈ 1 സെന്റിമീറ്ററിന്റെ 10 15 എണ്ണം മാത്രമേ ഈ കൂട്ടർ നീക്കുമായിരുന്നുള്ളൂ അതിനർത്ഥം 0 67 സെന്റീമീറ്റർ അതിനാൽ ചുവന്ന സ്ട്രിംഗിൽ പൾസ് അല്പം ഞെരിഞ്ഞതായി തോന്നുന്നു വീതി 0 67 സെന്റിമീറ്റർ മാത്രമായിരിക്കും എന്തുകൊണ്ടെന്നാൽ ഫ്രണ്ട് എന്റിന് അത്രയും സമയം നീങ്ങാൻ കഴിഞ്ഞില്ല പിൻഭാഗം അതിർത്തിയിലെത്തി അതിന്റെ ഉയരം 4 മില്ലിമീറ്ററാണ് പ്രതിഫലിക്കുന്ന തരംഗത്തിന് മറുവശത്ത് വലുപ്പം ഒരുപോലെയാകും കാരണം വേഗത തുല്യമാണ് അതിനാൽ ഞാൻ പച്ച ഉപയോഗിച്ച് നിർമ്മിക്കട്ടെ അത് ഒരേ വീതിയും ഉയരം 1 മില്ലിമീറ്ററും ആയിരിക്കും കാരണം പ്രതിഫലിച്ച വ്യാപ്തി കുറവാണ് അതിനാൽ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ രണ്ട് പൾസുകളിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ യഥാർത്ഥ പൾസ് ഇല്ലാതാകും പ്രതിഫലിച്ചതും കൈമാറ്റം ചെയ്യപ്പെട്ടതുമായ പൾസ് നോക്കുകയാണെങ്കിൽ ഞാൻ കാണാൻ പോകുന്നത് പ്രതിഫലിച്ച പൾസ് നീങ്ങി എന്ന് കരുതുക അതിന്റെ മുൻഭാഗം ഇത് 15 സെന്റീമീറ്റർ നീക്കി അതിനാൽ ഇത് 15 സെന്റീമീറ്ററാണ് ഇത് വ്യക്തമായും 1 സെന്റീമീറ്ററും ഈ ഉയരം 1 മില്ലിമീറ്ററുമാണ് പ്രക്ഷേപണം ചെയ്ത പൾസ് 10 സെന്റിമീറ്റർ മാത്രമേ നീങ്ങുമായിരുന്നുള്ളൂ മുൻവശത്ത് 10 സെന്റിമീറ്റർ മാത്രമേ നീങ്ങുമായിരുന്നുള്ളൂ വീതി 0 67 സെന്റീമീറ്ററും ഉയരം 4 മില്ലിമീറ്ററുമാണ് അതിനാൽ ഇങ്ങനെയാണ് കാണാൻ പോകുന്നത് പ്രതിഫലിച്ച പൾസ് ട്രാൻസ്മിറ് ചെയ്യപ്പെടുന്ന പൾസിനേക്കാൾ വളരെ ദൂരെയായിരിക്കും വാസ്തവത്തിൽ ഇത് ഒന്നര ഇരട്ടി അകലെയാണ് അതിനാൽ അതാണ് ഈ പ്രശ്നത്തിന്റെ പരിഹാരം അടുത്ത പ്രശ്നം നമ്പർ 7 എന്നത് ഗ്ലാസ് സ്ലാബിൽ ലൈറ്റ് നോർമൽ ഇൻസിഡന്റ് ആണ് അതിനാൽ എനിക്ക് ഒരു ഗ്ലാസ് സ്ലാബ് ഉണ്ട് ലൈറ്റ് നോർമൽ ഇൻസിഡന്റ് ആണ് പ്രകാശത്തിന്റെ എത്ര ശതമാനം പ്രതിഫലിക്കുന്നുവെന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ അതിനർത്ഥം കുറച്ച് തീവ്രത വരുന്നുണ്ടെങ്കിൽ ചില പോയിന്റിംഗ് വെക്റ്റർ എസ് ഇൻസിഡന്റ് പോയിന്റിംഗ് വെക്റ്റർ നിങ്ങൾക്ക് ഒരു യൂണിറ്റ് ഏരിയയിൽ വരുന്ന വൈദ്യുതിയുടെ അളവ് നൽകുന്നു എന്താണ് പുറത്തേക്ക് പോകുന്നത് എസ് പ്രതിഫലിപ്പിക്കുന്നു അതാണ് ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അതേ മാധ്യമത്തിൽ തന്നെ എനിക്കറിയാം എസ് റിഫ്ലെക്ടഡ് എസ് ഇൻസിഡന്റ് കൊണ്ട് ഹരിച്ചാൽ ആനുപാതികമാണ് ഇ റിഫ്ലെക്ടഡ് ഓവർ ഇ ഇൻസിഡന്റ് സ്ക്വയറിന് അതിനാൽ ഇ ഇൻസിഡന്റ് ബൈ ഇ ഇൻസിഡന്റ് ഞാൻ ചെയ്തു അതിനാൽ ഇ റിഫ്ലെക്ടഡ് എനിക്കറിയാമെങ്കിൽ ഞാൻ ചെയ്തു അതിർത്തി വ്യവസ്ഥകളിലൂടെ പ്രഭാഷണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ എന്തിനേയും E റിഫ്ലെക്ടഡ് ആണെന്ന് എനിക്കറിയാം നേരത്തെ v 2 മൈനസ് v 1 ഓവർ v 2 പ്ലസ് v 1 എന്ന സ്ട്രിംഗിനായി ഞങ്ങൾ ഇത് എഴുതി ഇത് n 1 മൈനസ് n 2 ഓവർ n 1 പ്ലസ് n 2 തവണ ഇ ഇൻസിഡന്റ് എന്നും എഴുതാം Ereflected v2 v1v2v1Eincidentn1 n2n1n2 Eincident EreflectedEincident n1 n2n1n2 1 1 5 15 n 2 n 1 നെക്കാൾ വലുതാണെങ്കിൽ പ്രതിഫലിക്കുന്ന പ്രകാശത്തിന് വിപരീത ഘട്ടമുണ്ടെന്നും n 2 n 1 നെക്കാൾ വലുതാണെങ്കിൽ E റിഫ്ലെക്ടഡ് മൈനസ് E ഇൻസിഡന്റ് ആയിരിക്കുo അതിനാൽ ഈ സാഹചര്യത്തിൽ E റിഫ്ലെക്ടഡ് ഓവർ E ഇൻസിഡന്റ് n 1 മൈനസ് n 2 ഓവർ n 1 പ്ലസ് n 2 ന് തുല്യമാണ് അതായത് ഞാൻ മോഡുലസ് എടുക്കുകയാണെങ്കിൽ കാരണം ഞാൻ സ്ക്വയർ എടുക്കാൻ പോകുന്നു അവസാനം എല്ലാം സ്ക്വയർ ചെയ്യുക ഇത് 1 മൈനസ് 1 5 ഓവർ 1 പ്ലസ് 1 5 ആണ് ഇത് 0 5 ഓവർ 2 5 അതായത് ഇത് അഞ്ചിലൊന്നാണ് EreflectedEincident n1 n2n1n2 1 1 5 15 അതിനാൽ S റിഫ്ലെക്ടഡ് ഓവർ S ഇൻസിഡന്റ് 1 ഓവർ 25 ന് തുല്യമായിരിക്കും അവിടെ അത് ഇ റിഫ്ലെക്ടഡ് ബൈ ഇ ഇൻസിഡന്റ് സ്ക്വയർ ന് തുല്യമാണ് അതിനാൽ എസ് റിഫ്ലെക്ടഡ് ഇ റിഫ്ലെക്ടഡ് ന്റെ 125 ആം ഭാഗം മാത്രമാണ് അല്ലെങ്കിൽ 4 ശതമാനം പ്രകാശം മാത്രമേ പ്രതിഫലിക്കുന്നുള്ളൂ SreflectedSincident125 4 ശതമാനം പ്രകാശം മാത്രമേ പ്രതിഫലിക്കുന്നുള്ളൂ എയർ ഗ്ലാസ് ഇന്റർഫേസ് എടുക്കുന്നതിനുപകരം ഞാൻ വാട്ടർ ഗ്ലാസ് ഇന്റർഫേസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അതിനുപകരം എനിക്ക് മുകളിൽ വെള്ളവും അടിയിൽ ഗ്ലാസും ഉണ്ടായിരുന്നുവെന്ന് കരുതുക ഈ ഇന്റർഫേസിൽ പ്രതിഫലനം എന്താണ് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നത് അതിനാൽ ഇപ്പോൾ ഞാൻ വാട്ടർ ഗ്ലാസ് ഇന്റർഫേസ് എടുക്കുന്നു ഈ സാഹചര്യത്തിൽ S റിഫ്ലെക്ടഡ് ഓവർ S ഇൻസിഡന്റ് ഇത് വീണ്ടും n 1 മൈനസ് n 2 ഓവർ n 1 പ്ലസ് n 2 സ്ക്വയർ 1 33 ന് തുല്യമായിരിക്കും വാട്ടർ റിഫ്രാക്റ്റീവ് സൂചിക 1 33 മൈനസ് 1 5 ഓവർ 1 33 പ്ലസ് 1 5 സ്ക്വയറാണെന്ന് കരുതുക ഇത് 0 17 ഓവർ 2 83 സ്ക്വയറാണെന്ന് കരുതുക നിങ്ങൾ ഇത് കണക്കാക്കിയാൽ ഇത് 1 ഓവർ 270 വരും SreflectedSincidentn1 n2n1n22 1 52 0 832 ≅1270 അതിനാൽ നിങ്ങൾക്ക് അറിയാവുന്ന 2 ശതമാനത്തിൽ താഴെ പ്രകാശത്തിന്റെ 2 ശതമാനത്തിൽ താഴെയാണ് പ്രതിഫലിക്കുന്നത് റിഫ്രാക്റ്റീവ് സൂചിക പൊരുത്തപ്പെടുന്നെങ്കിൽ പ്രതിഫലിച്ച പ്രകാശം കുറവാണെന്ന് നിങ്ങൾക്ക് കാണാം വാസ്തവത്തിൽ റിഫ്രാക്റ്റീവ് സൂചിക തുല്യമാവുകയാണെങ്കിൽ പ്രതിഫലിച്ച പ്രകാശം ഉണ്ടാകില്ല ഇതിനെ ചിലപ്പോൾ വിളിക്കാറുണ്ട് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ ഈ സാങ്കേതിക പദം നിങ്ങൾ കേൾക്കും ഇംപെഡൻസ് പൊരുത്തപ്പെടുത്തൽ നിങ്ങൾ ഇംപെഡൻസുമായി പൊരുത്തപ്പെടുന്നെങ്കിൽ പ്രതിഫലിച്ച പ്രകാശം വളരെ കുറവാണ് ചിലപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ കാണുന്നുവെന്ന് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ ഇംപെഡൻസ് പൊരുത്തപ്പെടുന്നില്ലെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ധാരാളം ശബ്ദമോ മറ്റോ ഉണ്ട് കാരണം ധാരാളം പ്രതിഫലനങ്ങൾ നടക്കുന്നുണ്ട് രണ്ട് മാധ്യമങ്ങളുടെ ഇംപെഡൻസ് അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് സൂചിക അല്ലെങ്കിൽ വേഗതയുമായി നിങ്ങൾ പൊരുത്തപ്പെടുന്ന നിമിഷം പ്രതിഫലനം വളരെ വിരളമാണ് അതിനാൽ ഫലപ്രദമായ പ്രക്ഷേപണത്തിനായി സംയുക്തമുള്ളിടത്തെല്ലാം ഇംപെഡൻസ് പൊരുത്തപ്പെടുത്തൽ നടത്തേണ്ടത് പ്രധാനമാണ് അവസാനമായി ഞാൻ ഈ പ്രശ്നം ചെയ്യാൻ പോകുന്നു വ്യത്യസ്തങ്ങളായ ഈ കണങ്ങളെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുക അവയിൽ നിന്ന് വായുവും പ്രകാശവും വരുന്നു അത് ഇലക്ട്രോണും ഒരേ ആവൃത്തിയിൽ ആന്ദോളനവും ഉണ്ടാക്കാൻ തുടങ്ങുന്നു അതിനാൽ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് കണങ്ങളുടെ അതേ വലുപ്പമാണ് ഈ ഇലക്ട്രോണുകളുടെ ആന്ദോളനത്തിന്റെ അതേ വ്യാപ്തി ഒരു കണിക ചുവന്ന വെളിച്ചം നൽകുന്നുവെന്ന് കരുതുക അത് ഏകദേശം 700 നാനോമീറ്റർ തരംഗദൈർഘ്യവും മറ്റൊരു കണിക പച്ച വെളിച്ചം നൽകുന്നു ഇത് ഏകദേശം 500 നാനോമീറ്റർ തരംഗദൈർഘ്യമാണ് അല്ലെങ്കിൽ ഈ കണികകൾ ഒന്നുതന്നെയാണ് നിങ്ങളുടെ വ്യാപ്തി ഇലക്ട്രോണുകൾ ആന്ദോളനം ചെയ്യുന്നുവെന്നും എല്ലാം തുല്യമാണ് ഈ കണങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന ശക്തിയിലെ വ്യത്യാസം എന്തായിരിക്കുമെന്നും അതിനാൽ റേഡിയേഷനെക്കുറിച്ചുള്ള എന്റെ പ്രഭാഷണങ്ങൾ ഒമേഗ റൈസ് ടു 4 ആനുപാതികമാണെന്ന് നിങ്ങൾ കണ്ടു ബാക്കി കാര്യങ്ങൾ ഒന്നുതന്നെയാണെങ്കിൽ ഇത് തീർച്ചയായും ആമ്പ്ലിറ്റ്യൂഡിനെ ആശ്രയിച്ചിരിക്കുന്നു ഒപ്പം ഗുണകങ്ങളായ എപ്സിലോൺ 0 1 2 ഉം അതിനെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു പക്ഷേ ഞങ്ങൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നില്ല കാരണം അവയെല്ലാം ഒന്നുതന്നെയാണ് ഈ സാഹചര്യത്തിൽ മറ്റെല്ലാ വസ്തുക്കളും ഒമേഗ റൈസ് ടു 4 അല്ലെങ്കിൽ ആനുപാതികമാണ് ഇത് 1 ഓവർ ലാംഡ റൈസ് ടു 4 അതിനാൽ പച്ച വെളിച്ചത്തിനുള്ള പവർ 500 നാനോമീറ്ററിൽ റൈസ് ടു 4 ചുവപ്പിന് പവർ പ്രകാശം 1 ഓവർ 700 റൈസ് ടു 4 ആയി അതിനാൽ പച്ച വെളിച്ചത്തിനുള്ള പവർ ഓവർ ചുവപ്പ് വെളിച്ചത്തിനുള്ള പവർ 7 ഓവർ 5 റൈസ് ടു 4 ഇത് 1 2 റൈസ് ടു 4 ആയി ഏകദേശം 3 8 ന് തുല്യമാണ് Power Green light15004Power red light17004Power Power 7541 8 അതിനാൽ ചുവന്ന വെളിച്ചത്തേക്കാൾ 3 8 മടങ്ങ് വലുതായി പച്ച വെളിച്ചം പുറത്തുവരും കൂടുതൽ ഊർജ്ജം അവിടെ ഉണ്ടാകും ഇത് നീലാകാശത്തിനും വിശദീകരണമാണ് ഓർമ്മിക്കുക ഈ പ്രകാശം കണങ്ങളിൽ വരുമ്പോൾ ഇത് ഈ ദ്വിധ്രുവങ്ങളാക്കുകയും നീല വെളിച്ചം കൂടുതൽ വികിരണം ചെയ്യാൻ പോകുകയും ചെയ്യുന്നു അതിനാൽ ആ പവർ കൂടുതൽ ചിതറിക്കിടക്കുന്നു അത് എല്ലായിടത്തുനിന്നും വരുന്നതായി നിങ്ങൾ കാണുന്നു ചുവപ്പ് അത്രയധികം ചിതറിക്കിടക്കുന്നില്ല അതിനാൽ ഇത് നിങ്ങളിലേക്ക് നേരിട്ട് വരുന്നു